ഓൺലൈൻ സോഷ്യൽ മീഡിയയിലെ സ്വകാര്യതയും സുരക്ഷയും എന്ന കോഴ്സിലേക്ക് സ്വാഗതം ഇത് വീക്ക് 3 വീക്ക് 2 വിൽ നമ്മൾ കവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നോക്കാം നമ്മൾ ആദ്യം എന്താണ് API എന്ന് നോക്കി അതിനുശേഷം പൈത്തൺ പ്രോഗ്രാമിങ് ലാംഗ്വേജ് MongoDBഎങ്ങനെ ഡേറ്റ സംഭരിക്കാം PhpMyAdmin അല്ലെങ്കിൽ RoboMongo എന്നിവ ഉപയോഗിച്ച് ഡേറ്റ എങ്ങിനെ ദൃശ്യവൽക്കരിക്കാനാകും എന്നൊക്കെ കണ്ടു ഫേസ്ബുക്ക് API ട്വിറ്റർ API എന്നിവ ഉപയോഗിച്ച് നിങ്ങൾ എല്ലാവരും ഇതിനകം തന്നെ പരിശീലനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനുശേഷം നമ്മൾ ട്രസ്റ്റ് ക്രെഡിബിലിറ്റി എന്നീ വിഷയങ്ങൾ നോക്കി അതിൽ നമ്മൾ ഒന്നിലധികം സംഭവങ്ങൾ കണ്ടു അതിലൂടെ നമ്മൾ ചില ആശയങ്ങൾ കൂടി നോക്കി 2 ാം ആഴ്ചയിൽ ഞാൻ ഉപയോഗിച്ച ഒരു സ്ലൈഡ് ഇതാ കിംവദന്തികളേക്കാൾ സാവധാനത്തിലാണ് സത്യസന്ധമായ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നുവെന്ന് ഞങ്ങൾ കാണിച്ചു കൂടാതെ ഈ പ്രശ്നത്തെ നേരിടാൻ കഴിയുന്ന നിരവധി സാങ്കേതിക വിദ്യകളും കാണിച്ചു തെറ്റായ വിവരങ്ങളെക്കുറിച്ചുള്ള ചില ഉദാഹരണങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതന്നു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ട്വീറ്റുകൾക്ക് ഒന്നിലധികം ഇഫക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് വ്യാജ ഉള്ളടക്കം വൈറലാകുന്നു സ്റ്റോക്ക് മാർക്കറ്റിലെ ചില മൂല്യങ്ങൾ ബാധിക്കപ്പെടുന്നു തീർച്ചയായും കിംവദന്തികളും 2 ാം ആഴ്ചയിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കാണിച്ചിരുന്നു മണൽ ചുഴലിക്കാറ്റിന്റെ ഞെട്ടിപ്പിക്കുന്ന ഒരു ചിത്രം കാണിച്ചിരുന്നു ഈ ചിത്രം വൈറലാവുകയും പൊതുജനങ്ങളെ ബാധിക്കുകയും കൂടി ചെയ്തു എങ്ങനെ എന്ത് തരത്തിലുള്ള വിശകലനം നടത്താം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് അവബോധം നല്കാൻ ഞാൻ പ്രത്യേകം ശ്രമിച്ചു പ്രത്യേകിച്ചും ആര് എപ്പോൾ എവിടെ എന്ത് എന്തിന് എങ്ങനെ എന്നിവ സോഷ്യൽ മീഡിയ ഉള്ളടക്കം നോക്കുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള വിശകലനങ്ങളാണ് ഇവ തുടർന്ന് പിന്നീട് ട്വീറ്റുകളിൽ ലഭ്യമായ വ്യത്യസ്ത ഫീച്ചറുകളെക്കുറിച്ച് പ്രത്യേകിച്ച് യൂസർ ഫീച്ചറുകളെക്കുറിച്ച് നമ്മൾ നോക്കി അതോടൊപ്പം ഈ ട്വീറ്റ് ഫീച്ചറുകൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്നതിനെക്കുറിച്ചും എങ്ങനെയാണ് ഈ ഫീച്ചറുകൾ കൂട്ടിച്ചേർത്ത് ട്വീറ്റ് നോക്കാനും തുടർന്ന് അത് നിയമാനുസൃതമാണോ അതോ വ്യാജമാണോ എന്ന് പറയാൻ കഴിയുന്ന ഒരു ക്ലാസിഫയർ സൃഷ്ടിക്കുന്നതെന്നും നമ്മൾ വിശദമായി പറഞ്ഞു കൂടുതൽ ഉദാഹരണങ്ങൾ പ്രത്യേകിച്ചും ഇത് ബോസ്റ്റൺ മാരത്തോണിൽ നിന്നാണ് ബോസ്റ്റൺ സ്ഫോടനത്തിൽ മരിച്ച 8 വയസ്സുകാരന് RIP അർപ്പിച്ചുകൊണ്ടുള്ള ട്വീറ്റ് 30000 ലധികം തവണ റീട്വീറ്റ് ചെയ്തു ഒരു ക്ഷുദ്ര ഉപയോക്താവ് ഈ സംഭവത്തെ പ്രചരിപ്പിക്കുന്നതിനോടൊപ്പം ഇതുപയോഗിച്ച് ഇരകളെ ക്ഷുദ്രകരമായ വിവരങ്ങൾ പങ്കിടുന്ന ക്ഷുദ്ര URL ലേക്ക് malicious URLs പോകാനുള്ള ഉള്ളടക്കം പ്രചരിപ്പിച്ചതുമായ സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതന്നു ഇത്തരത്തിലുള്ള വിശകലനം നടത്തുന്നതിന് ഡേറ്റ എങ്ങനെ പ്രതിനിധീകരിക്കാം എന്ത് തരത്തിലുള്ള ഡേറ്റയാണ് ശേഖരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു സ്ലൈഡ് ആണിത് സോഷ്യൽ മീഡിയയിൽ സൃഷ്ടിക്കപ്പെടുന്ന സോഷ്യൽ മീഡിയ ഡാറ്റാ ഉള്ളടക്കത്തിലെ സ്പൈക്കുകളെക്കുറിച്ചും ഞാൻ പരാമർശിച്ചിരുന്നു യഥാർത്ഥ ലോകത്ത് നടക്കുന്ന യഥാർത്ഥ സംഭവത്തിനേക്കാളും വളരെയധികം ജനപ്രീതിയുള്ളത് ഇത്തരം ഉള്ളടക്കങ്ങൾക്കാണ് മനുഷ്യവേട്ട അവസാനിച്ചിടത്ത് ധാരാളം ആളുകൾ അതിനെക്കുറിച്ചു സംസാരിക്കുന്നു അതുകൊണ്ട് ട്വീറ്റുകളിൽ സ്പൈക്കുകൾ ഉണ്ടാവുന്നു എന്നതിനുള്ള ഒരു ഉദാഹരണമാണ് ഇത് ഇത് ജിയോ ലൊക്കേറ്റഡ് ട്വീറ്റുകളാണ് ഓരോ ഡോട്ടും ഒരു ജിയോ ടാഗ് ഘടിപ്പിച്ചിട്ടുള്ള ഒരു ട്വീറ്റാണ് ഈ ട്വീറ്റുകൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് പറയാൻ ഇത്തരം ഗ്രാഫുകൾ സഹായകമാകും ഈ വ്യാജ ഉള്ളടക്കം പോസ്റ്റുചെയ്യുന്ന വ്യാജ അക്കൌണ്ടുകൾ സൃഷ്ടിച്ച ഉപയോക്താക്കളുടെ കമ്മ്യൂണിറ്റി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു രസകരമെന്നു പറയട്ടെ അവയെല്ലാം വളരെ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു അത് ഒരു അടഞ്ഞ കമ്മ്യൂണിറ്റി ആണ് അതിനാൽ ഓരോ ബ്ലോക്കിനെക്കുറിച്ചും സംസാരിക്കുകയും ഈ ബ്ലോക്കുകളെയെല്ലാം വിശദീകരിക്കുകയും ചെയ്യുന്നത് വിശ്വാസത്തിലും വിശ്വാസ്യതയിലുമുള്ള പ്രശ്നങ്ങൾക്ക് രസകരമായ ചില പരിഹാരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന ഒരു വാസ്തുവിദ്യയാണ് കൂടാതെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഡാറ്റ എങ്ങനെ ശേഖരിക്കുന്നു ഏത് തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ശരിക്കും എങ്ങനെയാണു നിങ്ങൾ വ്യാഖ്യാനിച്ച ഡേറ്റ പരിശോധിച്ചത് ഇത് ശരിക്കും ഉയർന്ന നിലവാരം ഉള്ളതാണോ എന്ത് തരത്തിലുള്ള സവിശേഷതകളാണ് സൃഷ്ടിക്കപ്പെട്ടത് ഏത് തരത്തിലുള്ള മാതൃകയാണ് നമ്മൾ വികസിപ്പിച്ചെടുത്തത് ഒരാൾക്ക് വികസിപ്പിക്കാൻ കഴിയുന്ന മോഡൽ എന്താണ് ഇപ്പോൾ നമ്മൾ പ്രയോഗിച്ച സാങ്കേതികതയും നമ്മൾ സൃഷ്ടിച്ച മോഡലും യഥാർത്ഥത്തിൽ നല്ലതാണോ എന്ന കണ്ടെത്താനുള്ള മൂല്യനിർണ്ണയ മാട്രിക്സ് ഏതൊക്കെയാണ് എന്ന് പരാമർശിക്കുന്ന ഒന്നിലധികം ആർക്കിടെക്ചർ ഡയഗ്രാമുകളിലൂടെ ഞാൻ നിങ്ങളെ നയിച്ചു അതിനാൽ ഓരോ ബ്ലോക്കിനെക്കുറിച്ചും സംസാരിക്കുകയും ഈ ബ്ലോക്കുകളെയെല്ലാം വിശദീകരിക്കുകയും ചെയ്യുന്നത് വിശ്വാസത്തിലും വിശ്വാസ്യതയിലുമുള്ള പ്രശ്നങ്ങൾക്ക് രസകരമായ ചില പരിഹാരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന ഒരു വാസ്തുവിദ്യയാണ് ഇത് അതോടൊപ്പം ട്വീറ്റ് ക്രെഡ് എന്ന് വിളിക്കപ്പെടുന്ന പ്ലഗിൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതന്നു നിങ്ങളിൽ ചിലരെങ്കിലും എങ്ങനെയാണു ട്വീറ്റുകൾ വിലയിരുത്തപ്പെടുന്നതെന്നും ഉപയോക്താക്കൾക്ക് മുന്നിൽ x on 7 ന്റെ മൂല്യം എങ്ങനെയാണു അവതരിപ്പിക്കുന്നതെന്നും കണ്ടെത്താൻ ട്വീറ്റ് ക്രെഡ് പ്ലഗിൻ ഉപയോഗിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ ഇപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് എങ്ങനെയാണ് ട്വിറ്ററിനെക്കുറിച്ചുള്ള ഈ ധാരണ എടുത്ത് മറ്റ് സോഷ്യൽ നെറ്റ്വർക്കുകളിൽ പ്രയോഗിക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ചാണ്കാരണം ഇത് ഓൺലൈൻ സോഷ്യൽ മീഡിയ കോഴ്സിലെ ഒരു സ്വകാര്യതയും സുരക്ഷയുമാണ് അതിനാൽ ട്വിറ്ററിൽ നിന്ന് നമ്മൾ പഠിച്ച ഇത്തരം സാങ്കേതികവിദ്യകൾ മറ്റ് സോഷ്യൽ നെറ്റ്വർക്കുകളിൽ എങ്ങനെ പ്രയോഗിക്കാം എന്ന് കണ്ടെത്തുന്നത് രസകരമാണെന്ന് ഞാൻ കരുതുന്നു പ്രത്യേകിച്ച് ഞാൻ ഫേസ്ബുക്കിനെക്കുറിച്ച് സംസാരിക്കും നിങ്ങൾ അതിനെക്കുറിച്ച് ആദ്യം ചിന്തിക്കുകയാണെങ്കിൽ എന്റെ വീക് 1 ലെ പ്രഭാഷണത്തിൽ ഫേസ്ബുക്കും ട്വിറ്ററും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചു അവിടെ ഫേസ്ബുക്ക് ഒരു ബൈ ഡയറക്ഷണൽ നെറ്റ്വർക് ആണെന്നും ട്വിറ്റർ ഒരു യൂണി ഡയറക്ഷണൽ നെറ്റ്വർക് ആണെന്നും ഘടന തന്നെ വളരെ വ്യത്യസ്തമാണെന്നും നമ്മൾ പറഞ്ഞു കൂടാതെ പഠിക്കാൻ ഈ രണ്ട് സോഷ്യൽ നെറ്റ്വർക്കുകളിലും ലഭ്യമായ സവിശേഷതകളും വ്യത്യസ്തമാണ് ട്വിറ്ററിൽ ഇത് ഫോളോവിങ്ങും ഫോളോവേഴ്സും ആണ് ഫേസ്ബുക്കിൽ ഇത് യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളാണ് ഈ നെറ്റ്വർക്കുകൾ API വഴി നൽകുന്ന വിവരങ്ങളും വളരെ വ്യത്യസ്തമാണ് നെറ്റ്വർക്കുകളുടെ ഘടനയും വ്യത്യസ്തമാണ് പ്രത്യേകിച്ച് ഫേസ്ബുക്കിലെ ഈ സൌഹൃദത്തിന്റെ കാര്യം എടുത്തുപറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ കണക്ഷനുകൾ കൂടുതൽ വ്യക്തിപരമാണ് നിങ്ങളുടെ സുഹൃത്ത് കാണിക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് സത്യസന്ധമാകാൻ സാധ്യതയുള്ളതിനാൽ തുടർന്ന് നിങ്ങളുടെ സുഹൃത്തിന്റെ പോസ്റ്റ് യഥാർത്ഥത്തിൽ ഒരു യാദൃശ്ചിക വ്യക്തിയുടെ പോസ്റ്റിനേക്കാൾ സത്യസന്ധമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അതിനാൽ ഫേസ്ബുക്കും ട്വിറ്റർ നെറ്റ്വർക്കും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ ഒന്ന് പ്രത്യേകിച്ചും ഈ വിശ്വാസവും വിശ്വാസ്യതയും ചർച്ചയുടെ ഇടമായി നിലനിർത്തുന്നു എന്നതാണ് ഈ വ്യത്യാസം എടുത്തുകാണിക്കാൻ ഞാൻ ആഗ്രഹിച്ചു ഇപ്പോൾ ഈ വ്യത്യാസം കണക്കിലെടുക്കുമ്പോൾ ട്വിറ്ററിൽ നമ്മൾ മനസ്സിലാക്കിയ മോഡൽ എങ്ങനെ ഫേസ്ബുക്കിൽ പ്രയോഗിക്കാൻ കഴിയും എന്ന് നോക്കാം ആർക്കിടെക്ചർ നിങ്ങൾ കണ്ടാൽ ഏതാണ്ട് സമാനമാണ് ഈ സാഹചര്യത്തിൽ ഇത് അല്പം വ്യത്യസ്തമായി അവതരിപ്പിച്ചിരിക്കുന്നു FBI ഫെയ്സ്ബുക്ക് ഇൻസ്പെക്ടർ എന്നത് ട്വിറ്ററിലെ ട്വീറ്റ് ക്രെഡ് പോലെയുള്ള ഒരു ടൂൾ ആണ് ഇത് ഫേസ്ബുക് ഗ്രാഫ് API യിൽ നിന്ന് ഫേസ്ബുക് പോസ്റ്റ് എടുക്കുകയും ഈ പോസ്റ്റുകൾ ക്ഷുദ്രമാണോ അല്ലയോ വിശ്വസ്തമാണോ അല്ലയോ വിശ്വാസയോഗ്യമാണോ അല്ലയോ എന്നൊക്കെയുള്ള നിർണ്ണയം നടത്തുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ ഒരേ ആർക്കിടെക്ചർ തന്നെയാണ് പോസ്റ്റ് എടുക്കുന്നത് ചില സവിശേഷതകൾ എക്സ്ട്രാക്ഷൻ ചെയ്യുക പോസ്റ്റിന്റെ ചില ഗ്രഹണ സത്യങ്ങൾ മനസ്സിലാക്കുക തുടർന്ന് അതിൽ നിന്ന് ചില ഫീച്ചർ വെക്റ്ററുകൾ സൃഷ്ടിക്കുക അതിൽ നിന്ന് ഒരു മോഡൽ സൃഷ്ടിക്കുക ഈ സാഹചര്യത്തിൽ സൂപ്പർവൈസ്ഡ് ലേർണിംഗ് മോഡലാണ് ഉപയോഗിക്കുന്നത് കാരണം യഥാർത്ഥത്തിൽ നമ്മൾ ശേഖരിക്കുന്ന പോസ്റ്റുകളിൽ തന്നെ ഡേറ്റയുണ്ട് തുടർന്ന് ഒരു RESTful API സൃഷ്ടിക്കുകയും അതിലൂടെ ഈ പോസ്റ്റ് ക്ഷുദ്രമാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കണ്ടെത്താനാകുകയും ചെയ്യും ഈ ആർക്കിടെക്ചർ ട്വീറ്റ് ക്രെഡിന് സമാനമാണ്അതിനാൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ മനസിലാക്കാൻ നമ്മൾ യഥാർത്ഥത്തിൽ ധാരാളം സമയം ചെലവഴിക്കേണ്ടതുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല എന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ ദയവായി ഫോറത്തിൽ ചോദിക്കാൻ മടിക്കേണ്ടതില്ല അതിനാൽ ട്വീറ്റ് ക്രെഡിലും അല്ലെങ്കിൽ ട്വിറ്റർ ട്രസ്റ്റിലും ക്രെഡിബിലിറ്റി സ്ലൈഡുകളിലും പരാമർശിച്ചിട്ടുള്ള ഒരു കാര്യം WOT എന്ന് വിളിക്കപ്പെടുന്ന ഒരു വെബ് ഓഫ് ട്രസ്റ്റാണ് അതിന്റെ അർത്ഥമെന്താണെന്ന് ചുരുക്കമായി സൂചിപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചു ഇത് അടിസ്ഥാനപരമായി ഒരു ഡൊമൈൻ എടുക്കുകയും ട്വീറ്റ് ക്രെഡിനു സമാനമായി ഔട്ട്പുട്ട് നിർമിക്കുകയും ചെയ്യുന്നു മറ്റു സർവീസുകളിൽ നിങ്ങൾ കാണുന്നതുപോലെ ഇൻപുട്ട് ഒരു ഡൊമൈനും ഔട്ട്പുട്ട് ഒരു സ്കോറും ആണ് ഇതുപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു മലീഷിയസ് ഡൊമൈൻ ആണോ അല്ലയോ എന്ന പറയാൻ സാധിക്കും അതോടൊപ്പം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഒരു ഡൊമൈൻ രജിസ്റ്റർ ചെയ്തിട്ട് എത്ര നാളായി ആരാണ് ഡൊമൈൻ രജിസ്റ്റർ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾ ഈ ഫീച്ചർ ഉപയോഗിച്ച് നിർണ്ണയിക്കാൻ കഴിയും വെബ് ഓഫ് ട്രസ്റ്റ് നിങ്ങൾക്ക് excellent good satisfactory poor and very poor എന്നീ മൂല്യങ്ങൾ നൽകുന്നു നിങ്ങൾ കൊടുക്കുന്ന ഡൊമൈൻ iiit dot edu dot in എന്നിങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് റേറ്റിംഗ് സ്കെയിലുംകോൺഫിഡൻസ് സ്കെയിലും ഉപയോഗിച്ച് തിരിച്ച് വരും ഇത് ഞങ്ങൾ ഫേസ്ബുക് ഇൻസ്പെക്ടറിൽ ഉപയോഗിക്കുന്നു കാരണം ഫേസ്ബുക്കിൽ ഇത് URL നോക്കാനുള്ള ഫീച്ചറായോ നമ്മൾ വിശകലന ചെയ്യുന്ന പോസ്റ്റിന്റെ ഡൊമൈൻ നോക്കാനോ ഉപയോഗിക്കാം അതിനാൽ പ്ലഗിന്നിലേക്കുള്ള പോയിന്റർ ഇതാ നിങ്ങൾക്ക് ഇത് ശരിക്കും ഡൌൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അത് രസകരമായിരിക്കും ഇവ ക്രോം എക്സ്റ്റെൻഷനിലേക്കും ഫയർഫോക്സിലേക്കുമുള്ള ലിങ്കുകളാണ് ഈ പ്ലഗിൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്താണ് ചെയ്യുന്നത് ഇത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ട്വീറ്റ് ക്രെഡുമായി ഇതിന്റെ സാമ്യത എന്തൊക്കെയാണ് എന്നതിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം ഇത് Chrome സ്റ്റോറിലെ ഫേസ്ബുക്ക് ഇൻസ്പെക്ടറാണ് അടിസ്ഥാനപരമായി നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ബ്രൌസറിൽ ആഡ് ചെയ്യാം ഞാൻ ഉദ്ദേശിച്ചത് ഇത് നിലവിൽ എന്റെ ക്രോമിൽ ഉണ്ട് അല്ലെങ്കിൽ ഇത് ക്രോമിൽ ആഡ് ചെയ്യാം എന്നതാണ് ഇത് ആഡ് ചെയ്തതിനുശേഷം ഫേസ്ബുക് ടൈം ലൈനിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കാണുന്ന പോസ്റ്റിൽ നിങ്ങൾക്ക് ചില വ്യത്യാസങ്ങൾ കാണാൻ കഴിയും ഉദാഹരണത്തിന് എന്റെ ഇപ്പോഴത്തെ ഫേസ്ബുക് ടൈം ലൈനും ന്യൂസ് ഫീഡും ഇതാ അധികം ഇല്ലെന്നു നിങ്ങൾക്ക് കാണാം എന്റെ ടൈംലൈനിൽ കാണുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾ നോക്കിയാൽ അവിടെ വ്യാഖ്യാനങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് കാണാൻ കഴിയും ഫേസ്ബുക് ഇൻസ്പെക്ടർ യഥാർത്ഥത്തിൽ കാണിക്കുന്ന വിവരങ്ങളുടെ ചില ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഇവിടെ ഒരു പോസ്റ്റിന്റെ ഉദാഹരണം നോക്കാം വി കെ ചൌധരിയുടെ ഈ പോസ്റ്റിൽ ബോളിവുഡ് അപ്ഡേറ്റസിനുവേണ്ടി ക്ലിക്ക് ചെയ്യാം ഹേമ മാലിനി ദീപികയെ അഭിനന്ദിക്കുന്നു ദീപിക പദുക്കോൺ എൻഗേജ്ഡ് ആണോ ഈയൊരു പോസ്റ്റിൽ നോക്കിയാൽ ഫേസ്ബുക് ഇൻസ്പെക്ടർ ചെയ്തിരിക്കുന്ന ചില വ്യാഖ്യാനങ്ങൾ നിങ്ങൾക്ക് കാണാം ഇത് കോൺഫിഡൻസ് കുറവാണെന്ന് പറയുന്നു ജെനറേറ്റ് ചെയ്ത മോഡൽ ഉപയോഗിച്ചെടുത്ത അനുമാനം കുറവാണെന്നും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ചിത്രത്തിൽ ക്ലിക് ചെയ്യാനും പറയുന്നു നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ നേടാം ഇവിടെ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ഉദാഹരണം കൂടി കാണിച്ചുതരാം ആദ്യത്തെ കേസ് മിക്കവാറും കിംവദന്തി ആയിരിക്കാം അതുകൊണ്ടാണ് ഇത് യഥാർത്ഥത്തിൽ കണ്ടെത്തുകയും ഫേസ്ബുക് ഇൻസ്പെക്ടർ ഇതൊരു ചുവന്ന മാർക്കിൽ അടയാളപ്പെടുത്തുകയും ചെയ്തത് സ്പാം ആയേക്കാവുന്ന ഒരു ഉദാഹരണം ഇതാ ഇപ്പോൾ ലഭ്യമായ ഐഫോൺ 7 ന്റെ ഡിസൈനുകളും സവിശേഷതകളും നമുക്ക് ശരിക്കും അറിയില്ല എന്നാൽ ഈ പോസ്റ്റ് ഐഫോൺ 7 നെക്കുറിച്ച് പറയുന്നത് അതിശയകരവും അടിപൊളിയുമാണെന്നാണ് ഈ പോസ്റ്റ് ഒരു മലീഷിയസ് പോസ്റ്റാണെന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് ഇൻസ്പെക്ടർ വ്യാഖ്യാനിക്കുന്നു ഇങ്ങിനെയാണ് ഫേസ്ബുക്ക് ഇൻസ്പെക്ടർ പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഒരു ഫയർഫോക്സ് ഉപയോക്താവാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു പ്ലഗിൻ ഇവിടെയുണ്ട് അതിനാൽ ഫെയ്സ്ബുക്ക് ഇൻസ്പെക്ടർ ഒരു ക്രോം ബ്രൌസർ പ്ലഗിൻ ആയി ലഭ്യമായാലും ഫയർഫോക്സ് പ്ലഗിൻ ആയി ആഡ് ചെയ്താലും നിങ്ങളുടെ ബ്രൌസറിൽ ഉപയോഗിക്കാം അതിനാൽ ട്വിറ്ററിൽ നിന്നുള്ള വഴികളും ധാരണകളും എടുക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കേണ്ടത് ഇങ്ങിനെയാണ് ഞാനിവിടെ ഫേസ്ബുക്കിനെക്കുറിച്ച് കാണിച്ചതുപോലെ ട്വിറ്ററിലെ ഫീച്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് വിശ്വ സനീയമാണോ അല്ലയോ എന്ന് അറിയുവാനുള്ള ടെക്നിക്സ് എങ്ങനെ നിർമിക്കാം എന്നതാണ്